ഏത് രൂപത്തിലാണ് പരിഹാരം എടുക്കേണ്ടത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇവിടെ വരുന്നു അതിനാൽ ഞാൻ അത് aH0 bH0 എന്ന് എഴുതി ഇതുവരെ അതിർത്തി എന്ന ആശയം നമ്മൾ ശരിക്കും കണ്ടുപിടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല വ്യവസ്ഥകൾ എല്ലാം ശരിയാണ് അപ്പോൾ അതിർത്തി വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ബോർഡിൽ ഉള്ളത് മറക്കുക ഈ പ്രശ്നത്തിനുള്ള അതിർത്തി വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എനിക്ക് ഒരു പോയിന്റ് ഉറവിടം ഒറിജിനലിൽ നന്നായി ഇരിക്കുകയും ഒരു ഫീൽഡ് പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രശ്നത്തിനുള്ള ഒരു അതിർത്തി വ്യവസ്ഥ എന്താണ് വിദ്യാർത്ഥി 0 ഫീൽഡ് ഫീൽഡ് വളരെ അകലെ പോകുമ്പോൾ കറന്റ് I ദൂരേക്ക് പോകുമ്പോൾ ഫീൽഡ് 0 ലേക്ക് പോകണം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് J0 K0 എന്നിവ കാണിച്ച പ്ലോട്ടുകളിലേക്ക് തിരിഞ്ഞുനോക്കുമ്പോൾ ഞാൻ J0 K0 എന്നിവയുടെ ഏതെങ്കിലും ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ അവ രണ്ടും വലിയ x ൽ 0 ലേക്ക് പോകുമോ അതെ ഓരോന്നിന്റെയും വിശദാംശങ്ങൾ വ്യക്തിഗതമായി അതിനാൽ H0 ഉം H0 ഉം അസിംപ്റ്റോട്ടിക് പരിധിയെങ്കിലും ശരിയാണെന്ന് തോന്നുന്നു അതിനാൽ അത് പര്യാപ്തമല്ല എനിക്ക് ഭൌതികമായി ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഇത് ഗണിതത്തിൽ നിന്നല്ല ഭൌതികശാസ്ത്രത്തിൽ നിന്നാണ് വരുന്നത് അതിനാൽ ഞാൻ ഇവിടെ ഉത്ഭവസ്ഥാനത്താണെന്നും അതൊരു തരംഗ സമവാക്യമാണെന്നും ഓർക്കുക അതിനാൽ ചില തരംഗങ്ങൾ അത് ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകുന്നു അവിടെയാണ് ഞാൻ എന്റെ പ്രേരണ നൽകിയത് അതിനാൽ ഈ കാര്യത്തിലുടനീളം ഞാൻ അനുമാനിച്ച സമയ കൺവെൻഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സൂചന നൽകട്ടെ തുടക്കത്തിൽ തന്നെ മാക്സ്വെല്ലിന്റെ Maxwell's സമവാക്യം ഓർക്കുക ഒരു ddt ഉണ്ടായിരുന്നു ഞാൻ ഒരു ടൈം ഹാർമോണിക് കേസ് അനുമാനിച്ചു ഞാൻ ejωt ഇട്ടു അതിനാൽ ആ സമയ ഡെറിവേറ്റീവ് എനിക്ക് ഒരു മൈനസ് ഒമേഗ സ്ക്വയർ തരൂ ഞാൻ അർത്ഥമാക്കുന്നത് jω രണ്ടാമതും വിദ്യാർത്ഥി − ω2 − ω2 പക്ഷേ എന്റെ സമയ കൺവെൻഷൻ ejωt ആയിരുന്നു വിദ്യാർത്ഥിjω jωt ശരി അതിനാൽ അത് നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടോ അതിനാൽ നിങ്ങൾക്ക് ഒരു സൂചന നൽകുന്നതിന് പ്രേരണയുടെ സ്ഥാനത്ത് നിന്ന് പോയിന്റ് ഉറവിടത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ വളരെ വലിയ x ലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഞാൻ ദൂരെ പോകുകയാണെങ്കിൽ H0 H0 എന്നിവയിൽ അസിംപ്റ്റോട്ടിക് ഫോമുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ചില അധിക വിവരങ്ങൾ നൽകുന്നു പൊതുവേ നിങ്ങൾക്ക് ഹാങ്കൽ ഫംഗ്ഷനുകളോ ബെസൽ ഫംഗ്ഷനോ അടുത്ത രൂപത്തിൽ എഴുതാൻ കഴിയില്ല അവ പ്രത്യേക പ്രവർത്തനമാണ് അവയ്ക്ക് ഒരു അടഞ്ഞ ഫോം എക്സ്പ്രഷൻ ഇല്ല എന്നാൽ ചില പരിധികൾക്ക് കീഴിൽ വളരെ ചെറുത് x വളരെ വലുത് x അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവയ്ക്ക് ചില ഏകദേശ രൂപമുണ്ട് r അല്ലെങ്കിൽ x എന്നതിന്റെ വലിയ മൂല്യങ്ങൾക്കായി ആ ഏകദേശ രൂപം ഇവിടെ എഴുതിയിരിക്കുന്നു ഇപ്പോൾ ഇത് നോക്കുക ഏത് രൂപമാണ് ഭൌതികമായി സ്വീകാര്യമാകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവബോധം ലഭിക്കും വിദ്യാർത്ഥി രണ്ടാമത്തേത് കാരണം രണ്ടാമത്തേത് വിദ്യാർത്ഥി ജീർണിക്കുന്നു രണ്ടും നശിക്കുന്നു വിദ്യാർത്ഥി രണ്ടും ഈ രണ്ടു പേരുടെയും വ്യാപ്തി എന്താണ് വിദ്യാർത്ഥി √2πx അതിനാൽ വലിയ x രണ്ടും 0 ലേക്ക് പോകുന്നു വിദ്യാർത്ഥി ejωt ഗ്രൂപ്പുകൾ ഹഹ് ejωt വിദ്യാർത്ഥി എന്തെങ്കിലും 0 ആയി കണക്കാക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് എതിർ നടപടി എടുക്കണം ഇത് നിരന്തരം ആന്ദോളനം ചെയ്യുന്ന ഒരു ഫേസറാണ് പക്ഷേ വ്യാപ്തി ക്ഷയിക്കുന്നു ഒരു പ്രശ്നവുമില്ല അതിനാൽ നമുക്ക് ഈ പദം ഇവിടെ ഇരുവശത്തും എഴുതാം അത് സ്ഥലത്തിലും സമയത്തിലും ശരിയായ പരിഹാരമായിരിക്കും അല്ല ഫേസർ ഉപയോഗിച്ച് നമ്മൾ ചെയ്തത് അതാണ് അത് പരിഹരിക്കുക ഒരു ejωt ഇടുക യഥാർത്ഥത്തിൽ പങ്കെടുക്കുക വിദ്യാർത്ഥി പോസിറ്റീവ് ആയി എടുക്കുക തരംഗം ഏത് ദിശയിലേക്കാണ് പോകുന്നത് വിദ്യാർത്ഥി പോസിറ്റീവ് ആർ പുറത്തേക്ക് പോവുകയാണോ രണ്ട് തരംഗങ്ങളും പുറത്തേക്കാണോ വിദ്യാർത്ഥി രണ്ടാമതൊന്നുമല്ല രണ്ടാമത്തെ തരംഗം മാത്രമേ ഔട്ട്ഗോയിംഗ് തരംഗവുമായി പൊരുത്തപ്പെടുന്നുള്ളൂ കാരണം ഇത് ഒരു jkx − ωt ആണ് ഇത് മറ്റേ കൈയാണ് വിദ്യാർത്ഥി അകത്തേക്ക് ഇൻകമിംഗ് വേവ് കാരണം ഇത് ഒരു jkx ωt ആണ് അതിനാൽ ആ കാരണത്താൽ എന്റെ പ്രേരണ ഉത്ഭവസ്ഥാനത്താണ് ഞാൻ ഇവിടെ വലിയ x ലേക്ക് പോകുകയാണെങ്കിൽ അവർക്ക് കഴിയും ഈ നിരീക്ഷകന് ഇതുപോലെയുള്ള ഇൻകമിംഗ് തരംഗത്തെ നിരീക്ഷിക്കാൻ കഴിയില്ല അതാണ് ശരിയായ അർത്ഥം ഉത്ഭവത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നിരീക്ഷക തരംഗത്തെ മാത്രമേ ഈ വ്യക്തിക്ക് കണ്ടെത്താൻ കഴിയൂ അത് ഈ വ്യക്തിക്ക് മാത്രം അനുയോജ്യമാണ് അതിനാൽ ചില ഭൌതിക അവബോധത്തിന്റെയും ഗണിതശാസ്ത്ര രൂപീകരണത്തിന്റെയും ഒരു നല്ല സംയോജനം ഇവിടെയുണ്ട് അതിനാൽ നിരീക്ഷകനെ അടിസ്ഥാനമാക്കി ഔട്ട്ഗോയിംഗ് വേവ് വലതുവശത്ത് മാത്രമേ കാണുന്നുള്ളൂ അതിനാൽ a 0 വലത് a 0 സൂചിപ്പിക്കുന്നു അതിനാൽ അന്തിമ രൂപം bH0 ശരിയാണെന്ന് എനിക്ക് എഴുതാം അതിനാൽ നമ്മൾ ഇവിടെ പൊതുവായ പരിഹാരത്തോടെ ആരംഭിച്ചു നമ്മൾ ബാഹ്യമായി പറഞ്ഞു a എന്നത് 0 ന് തുല്യമാണ് അത് എനിക്ക് ഇത് നൽകുന്നു അപ്പോൾ എന്റെ പ്രശ്നം തീർന്നോ അതെ കൃത്യമായി അതിനാൽ ഞാൻ അർത്ഥമാക്കുന്നത് ശല്യപ്പെടുത്തുന്ന ഘടകം ഒഴികെ ഇത് ഏതാണ്ട് പൂർത്തിയാക്കിയ പിഴയാണ് ആ മൂല്യം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷേ എനിക്കത് അറിയേണ്ടതുണ്ട് അല്ലാത്തപക്ഷം എനിക്ക് ആ ഒരു വേരിയബിൾ എല്ലായിടത്തും ഉണ്ടാകും എന്റെ ഉത്തരങ്ങൾ എപ്പോഴും ഒരു ഗുണിത സ്ഥിരാങ്കത്താൽ ഓഫായിരിക്കും അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഒഴിവാക്കിയിരുന്ന കാര്യം എന്താണ് r 0 ഒഴിവാക്കാൻ നമുക്ക് നല്ല കാരണമുണ്ട് കാരണം നമ്മൾ കണ്ടെത്തിയതുപോലെ ബെസൽ Y ഫംഗ്ഷൻ മൈനസ് അനന്തതയിലേക്ക് വീഴട്ടെ പക്ഷെ എനിക്ക് പൂർണ്ണമായ പരിഹാരം ലഭിക്കണമെങ്കിൽ ഒരു രക്ഷയുമില്ല ഞാൻ ഇപ്പോൾ ഉത്ഭവത്തിലേക്ക് പോകണം അതിനാൽ സിംഗുലാരിറ്റികളോ അനന്തതകളോ കൈകാര്യം ചെയ്യുമ്പോൾ അവ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സുരക്ഷിത മാർഗം ഏതാണ് വിദ്യാർത്ഥി പരിധി 1 ഡി ഗ്രീൻസ് ഫങ്ഷനിൽ നമ്മൾ ഇതിനകം കണ്ട ഒരു കാര്യമാണ് പരിധി നമുക്കായി ഡെൽറ്റ ഫംഗ്ഷൻ ഉള്ളപ്പോൾ നമ്മൾ അതിനെ നേരിട്ട് സമീപിച്ചോ അതോ മറ്റെന്തെങ്കിലും ചെയ്തോ വിദ്യാർത്ഥി നമ്മൾ അത് ചെയ്തു നമ്മൾ അത് ശരിയായി സംയോജിപ്പിച്ചു അതിനാൽ നിങ്ങൾ ഒരു ഏകത്വം കാണുമ്പോൾ സംയോജിപ്പിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം അതുവഴി നിങ്ങൾക്ക് ഒരു പരിമിതമായ അളവ് ലഭിക്കും അല്ലാത്തപക്ഷം അവിടെ ഒരു അനന്തമായ ക്രമീകരണം ഉപയോഗിച്ച് നിങ്ങൾ എന്തുചെയ്യും